ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ ഐൻസ്റ്റൈൻസ് A B കോയെഫിഷ്യന്റ് Einstein's A and B coefficients എന്താണെന്ന് പറഞ്ഞു അവിടെ നമ്മൾ യഥാക്രമം E1 E2 എന്നീ എനർജിയുള്ള രണ്ടു എനർജി ലെവലുകൾ ലെവൽ 1 ലെവൽ 2 ഇവ എടുത്തു ഇതിൽ താഴ്ന്ന എനർജി ലെവൽ ആയ E1 ൽ N1 ആറ്റങ്ങളും ഉയർന്ന എനർജി ലെവൽ ആയ E2 വിൽ N2 ആറ്റങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴ്ന്ന എനർജി ലെവലിലേക്ക് ആറ്റം പതിക്കുന്ന നിരക്ക് ആയിരിക്കും അതുപോലെ തന്നെ ആകെ ഉള്ള ആറ്റത്തിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് എനർജി ലെവൽ സൂചിപ്പിക്കുന്ന 1 2 എന്ന സബ്സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കാം നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് രണ്ടു എനർജി ലെവലുകളാണെന്ന് മനസിലാക്കിയാൽ മതി മാത്രമല്ല B12 B21 ഇവ തുല്യമാണെന്ന് നേരത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ ഇവയെ B എന്ന് വിളിക്കാം അതുപോലെ A21 എന്നത് A എന്നെടുക്കാം

എന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു നമ്മൾ കണ്ട മറ്റൊരു കാര്യം A കോയെഫിഷ്യന്റ് ഉയർന്ന എനർജി ലെവൽ E2 വിന്റെ ലൈഫ് ടൈം 𝝉 യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ശരാശരി ലൈഫ് ടൈം അഥവാ ആറ്റം ഉയർന്ന എനർജി ലെവലിൽ എത്ര നേരം നിലനിൽക്കുന്നു എന്നുള്ളതും A കോയെഫിഷ്യന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമയം കൂടുന്നതിനനുസരിച്ച് ഉത്തേജിതാവസ്ഥയിലുള്ള ആറ്റം ഉത്സർജ്ജിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം അഥവാ റേഡിയേഷൻ ന്റെ ആംപ്ലിട്യൂഡ് എക്സ്പൊനെൻഷ്യൽ രീതിയിൽ കുറയുന്നുണ്ട് എന്ന ആശയത്തിൽ നിന്നാണ് ഈ ബന്ധം ഉടലെടുത്തത് ഈ എക്സ്പൊനെൻഷ്യൽ e At എന്ന രീതിയിലാണല്ലോ അതായത് 1A ടൈം കൊണ്ട് ആംപ്ലിട്യൂഡ് 1e തവണയായി കുറയുന്നു ഈ ടൈമിനെ ലൈഫ് ടൈം 𝝉 എന്ന് വിളിക്കുന്നു ഇതായിരിക്കും ഇവ തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം കൂടെ മനസിലാക്കാം ഈ തരംഗത്തിന്റെ ആംപ്ലിട്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാൽ നമ്മൾ ഇന്റെൻസിറ്റി അഥവാ പ്രകാശ തീവ്രതയും ഫ്രീക്വൻസി 𝞈 അല്ലെങ്കിൽ 𝞶 വും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ ഒരു നിർദ്ധിഷ്ട ഫ്രീക്വൻസി 𝞈0 വിനു നേരെ ഒരു പീക് ലഭിക്കുന്നതായി കാണാം ഫ്രീക്വൻസി 𝞈 തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത് യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാമല്ലോ ഈ ഗ്രാഫിന്റെ ഫുൾ വിഡ്ത് അറ്റ് ഹാഫ് മാക്സിമം അല്ലെങ്കിൽ FWHM എടുത്താൽ അതിൽ ഉൾക്കൊള്ളുന്ന ഫ്രീക്വൻസി ആയിരിക്കും A അപ്പോൾ A കോയെഫിഷ്യന്റ് ഈ പവർ സ്പെക്ട്രം ത്തിന്റെ FWHM നു തുല്യമായിരിക്കും ഈ പവർ സ്പെക്ട്രം ഓരോ ഇന്റെൻസിറ്റിക്കും ഉള്ള ഫ്രീക്വൻസിയെ ആസ്പദമാക്കി വരച്ചതാണ് ബ്ലൂ കളറിൽ ഇവിടെ കാണുന്ന ഗ്രാഫിൽ നിങ്ങൾക്ക് പീക്ക് FWHM ഇവ വ്യക്തമായി കാണാൻ കഴിയും അപ്പോൾ ഉത്തേജിത അവസ്ഥയിലുള്ള ആറ്റത്തിൽ നിന്നും വരുന്ന റേഡിയേഷന്റെ ഇന്റെൻസിറ്റി ഇപ്രകാരം കൂടി മാക്സിമത്തിലേക്കെത്തി കുറഞ്ഞു വരുന്നു അടുത്തതായി ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പ്രക്രിയയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടൈം ഏതു ശ്രേണിയിൽ അഥവാ ഓർഡറിൽ വരുന്നെന്ന് നോക്കാം ഉത്തേജിത അവസ്ഥയിലെ ലൈഫ് ടൈം ഏകദേശം 108 S നും 1010 S നും ഇടയിലാണ് വരുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അതായത് A കോയെഫിഷ്യന്റ് അതായത് 1τ 108 S 1 നും 1010 S 1 നും ഇടയിലാണ് വരുന്നത് ഇനി B കോയെഫിഷ്യന്റ് എത്രയാണെന്ന് നോക്കാം A യും B യുമായുള്ള റിലേഷൻ എന്നാണ് അപ്പോൾ ഇവിടെ A യുടെ ഓർഡർ 108 S 1 നും 1010 S 1 നും ഇടയിലാണ് ഇത് നമുക്ക് അപ്പ്രോക്സിമേറ്റ് ചെയ്ത് 109 എന്ന് എടുക്കാം പിന്നെ c3 𝞶3 എന്നത് 𝞴3 ആണ് 8𝜋h എന്നത് ഏകദേശം 10 34 എന്ന ഓർഡറിൽ വരും അപ്പോൾ 𝞴 500nm ആണ് അപ്പോൾ 𝞴3 53 x 106 x 10 27 അതായത് അങ്ങനെ B ≈ 1022 യൂണിറ്റ് ഇതിന്റെ യൂണിറ്റ് കാണുന്നത് ഒരു അസൈൻമെന്റ് ആയി നിങ്ങൾ ചെയ്തോളൂ ഇതിന്റെ യൂണിറ്റ് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത് A എന്നത് ടൈമിന്റെ ഇൻവെർസ് ആണെന്നും ഇതും Bu യുടെ യൂണിറ്റും ഒന്നാണെന്നുമാണ് അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡാറ്റയുടെ ഓർഡർ എന്താണെന്ന് ഏകദേശ രൂപം കിട്ടിയല്ലോ സ്റ്റിമുലേറ്റഡ് എമിഷൻ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യുന്നതിന് സാധ്യത ഉണ്ടാക്കുന്നു ഇത് എങ്ങനെ എന്ന് നോക്കാം നമുക്ക് ഗ്യാസ് നിറച്ച ഒരു ട്യൂബ് ഉണ്ടെന്നു വിചാരിക്കാം ഇതിൽ കൂടെ പ്രകാശം കടത്തി വിട്ടാൽ ലൈറ്റ് ആഗിരണം ചെയ്യപ്പെടുന്നത് കാരണം ഇതിൽ നിന്നും പുറത്തേക്കു വരുന്ന ലൈറ്റിന്റെ ഇന്റെൻസിറ്റി കുറവായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഉയർന്ന എനർജി ലെവലിൽ അതായത് E2 ലെവലിൽ N2 ആറ്റങ്ങളും താഴ്ന്ന എനർജി ലെവലിൽ അതായത് E1 ലെവലിൽ N1 ആറ്റങ്ങളുമുണ്ടെന്ന് കരുതുക സാധാരണ ഗതിയിൽ N1 N2 വിനേക്കാൾ കൂടുതലായിരിക്കും ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും അതുകൊണ്ടു തന്നെ എനർജി ആഗിരണം ചെയ്യുന്ന ആറ്റങ്ങളുടെ എണ്ണം ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴേക്ക് പതിച്ച് എനർജി റേഡിയേറ്റ് ചെയ്യുന്ന ആറ്റങ്ങളെക്കാൾ കൂടുതലായിരിക്കും ഇതിനു വിപരീതമായി ഈ ഗ്യാസിൽ N2 N1 നേക്കാൾ കൂടുതലാണെന്നു വിചാരിക്കൂ അപ്പോൾ ട്യൂബിന് ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം ആംപ്ലിഫൈ ചെയ്തു കൂടുതൽ ഇന്റെൻസിറ്റിയിൽ പുറത്തേക്കു വരുന്നു കാരണം റേഡിയേഷൻ ആഗിരണം ചെയ്യുന്ന ആറ്റങ്ങളെക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴേക്ക് പതിച്ച് റേഡിയേഷൻ ഉത്സർജ്ജിക്കുന്നു അതുകൊണ്ടുതന്നെ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു അടുത്തതായി ലൈറ്റിന്റെ തീവ്രത വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നതിന് N1 N2 ഇവ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താണെന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഈ ട്യൂബിലുള്ള ഗ്യാസ് പരിഗണിക്കാം ട്യൂബിന്റെ നീളം 𝚫z ക്രോസ്സ് സെക്ഷനൽ ഏരിയ a ഇതിലേക്ക് ഇന്റെൻസിറ്റി I യിൽ എല്ലാ ഫ്രീക്വൻസിയിലും പെട്ട ലൈറ്റ് വീഴുന്നുണ്ടെന്ന് വിചാരിക്കുക ഇതിൽ നിന്നും പുറത്തേക്കു വരുന്ന ലൈറ്റ് I 𝚫I എന്നെടുക്കാം ഇത് പോസിറ്റീവ് ആയി തന്നെ എടുക്കുന്നതായിരിക്കും സൌകര്യപ്രദം ബഹിർഗമിക്കുന്ന ലൈറ്റിന്റെ തീവ്രത I 𝚫I എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ തീവ്രത എങ്ങനെയാണ് കാണുന്നത് ഇതിനുള്ളിൽ ഫോട്ടോൺ ഉത്സർജ്ജിക്കുന്ന ആറ്റങ്ങളും ഫോട്ടോൺ ആഗിരണം ചെയ്യുന്ന ആറ്റങ്ങളും ഉണ്ട് ഉത്സർജിക്കപ്പെടുന്ന ഫോട്ടോണുകളും ആഗിരണം ചെയ്യപ്പെടുന്ന ഫോട്ടോണുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ബഹിർഗമിക്കുന്ന ലൈറ്റിന്റെ തീവ്രത I 𝚫I ആകുന്നത് ഇവിടെ നമ്മൾ 𝚫z നീളവും ക്രോസ്സ് സെക്ഷനൽ ഏരിയ a യുമായുള്ള ട്യൂബ് ആണ് എടുത്തിരിക്കുന്നത് അതിനുള്ളിലേക്ക് I ഇന്റെൻസിറ്റിയിൽ പ്രകാശം പതിച്ച് I 𝚫I ഇന്റെൻസിറ്റിയിൽ ബഹിർഗമിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ആഗിരണം ചെയ്യപ്പെടുകയും ഉത്സർജിക്കപ്പെടുകയും ചെയ്യുന്നത് കാരണമാണ് ഇവിടെ തീവ്രത വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഉയർന്ന എനർജി ലെവെലിലുള്ള ആറ്റത്തിന്റെ നമ്പർ ഡെൻസിറ്റി n2 താഴെയുള്ള എനർജി ലെവലിന്റെ നമ്പർ ഡെൻസിറ്റി n1 എന്നുമിരിക്കട്ടെ അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യാൻപോകുന്നത് നമ്മൾ ഇവിടെ സ്പോൻറെനിയസ് എമിഷൻ തത്കാലം അവഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഇവിടെ സങ്കൽപ്പിക്കുന്നത് പ്രകാശ തീവ്രത വളരെ കൂടുതലാണെന്നും അതിനാൽ ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ അഥവാ ഉത്തേജിത ഉത്സർജനവും ആഗിരണവും മാത്രമാണ് മുൻപന്തിയിലുള്ളതെന്നുമാണ് എനർജി ബാലൻസ് സമവാക്യം അനുസരിച്ച് ബഹിർഗമിക്കുന്ന എനർജി എന്നത് ഉള്ളിലേക്ക് പതിച്ച എനർജി ആറ്റത്തിൽ നിന്നും ഉത്സർജിക്കപ്പെടുന്ന എനർജി ആറ്റം ആഗിരണം ചെയ്യുന്ന എനർജി ആയിരിക്കും എനർജി ഇവിടെ ഇന്റെൻസിറ്റിയുടെ രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സമയത്തുള്ള എനർജി ആണ് ഇന്റെൻസിറ്റി എന്ന് ഇവിടെ നമ്മൾ എല്ലായിടത്തും യൂണിറ്റ് സമയത്തിലുള്ള എനർജി ആണ് കണക്കാക്കിയിട്ടുള്ളത് അതായത് അതുകൊണ്ടുതന്നെ പുറത്തേക്കു വമിക്കുന്ന എനർജി E എന്നത് ഇന്റെൻസിറ്റി രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ n2 വിനെ ട്യൂബിന്റെ വോളിയം a 𝚫z കൊണ്ട് ഗുണിക്കുമ്പോൾ ഉയർന്ന എനർജി ലെവലിൽ ഉള്ള ആറ്റത്തിന്റെ എണ്ണം കിട്ടും അതുപോലെ n1 വിനെ ട്യൂബിന്റെ വോളിയം a 𝚫z കൊണ്ട് ഗുണിക്കുമ്പോൾ താഴ്ന്ന എനർജി ലെവലിൽ ഉള്ള ആറ്റത്തിന്റെ എണ്ണം കിട്ടും ഇതിനെ Bu𝞶 കൊണ്ട് ഗുണിക്കുമ്പോൾ എമിഷൻ റേറ്റ് ലഭിക്കും ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴേക്ക് ഉണ്ടാവുന്ന ഓരോ സ്ഥാന മാറ്റത്തിനും hν എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് എനർജി ബാലൻസ് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഇക്വേഷൻ ലഭിക്കും അതായത് ഇവിടെനിന്നും നമുക്ക് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് 0 ആണെങ്കിൽ അതിനർത്ഥം ഉയർന്ന എനർജി ലെവലിൽ താഴ്ന്ന എനർജി ലെവലിനേക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ അതിനർത്ഥം ഉള്ളിലേക്ക് പതിപ്പിച്ച ലൈറ്റിന്റെ ആംപ്ലിഫൈഡ് ലൈറ്റ് ആണ് പുറത്തേക്കു വരുന്നതെന്നാണ് ഇതിനു വിപരീതമായി 0 ആണെങ്കിൽ അതിനർത്ഥം അഥവാ ലൈറ്റ് ഇന്റെൻസിറ്റി കുറയുകയാണ് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ ആറ്റം ലൈറ്റ് ആഗിരണം ചെയ്യുന്നു അടുത്തതായി നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റി എഴുതാം ഇവിടെ uT ഇന്റെൻസിറ്റി ഉപയോഗിച്ച് മാറ്റി എഴുതാം 𝚫𝞶 റേഞ്ചിൽ വ്യാപിച്ചിരിക്കുന്ന ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ആണ് ഗ്യാസിൽ കൂടെ കടത്തിവിട്ടത് ഇതിന്റെ ആകെ എനർജി uT𝚫𝞶 ആയിരിക്കും ഇതിനെ c കൊണ്ട് ഗുണിച്ചാൽ ഇന്റെൻസിറ്റി ലഭിക്കും അതായത് ഇതിൽനിന്നും ഇത് നേരത്തെ കണ്ട ഇക്വേഷനിൽ സബ്സ്റ്റിട്യൂട് ചെയ്താൽ ബ്രാക്കറ്റിനുള്ളിലുള്ള പദത്തിന് L2 ന്റെ അഥവാ ഏരിയയുടെ ഡയമെൻഷൻ ആണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തെളിയിക്കാം ഇവിടെ ഞാൻ ക്രോസ്സ് സെക്ഷൻ അതായത് ട്രാൻസിഷൻ ക്രോസ്സ് സെക്ഷൻ 𝞼 എന്തെന്ന് എഴുതാൻ പോകയാണ് അതായത് അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടെ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്റെൻസിറ്റിയിലുണ്ടാകുന്ന മാറ്റം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് കൂടെ പുനരവലോകനം ചെയ്തു നോക്കാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായി നമുക്ക് ഇങ്ങനെ എടുക്കാം ഉയർന്ന എനർജി ലെവലിൽ n2 ഗ്യാസ് ആറ്റങ്ങളും താഴെയുള്ള എനർജി ലെവലിൽ n1 ഗ്യാസ് ആറ്റങ്ങളുമുണ്ടെന്നു കരുതുക ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ട്രാൻസിഷൻ ഫ്രീക്വൻസിയ്ക്ക് ഏകദേശം അടുത്തുവരുന്ന ഫ്രീക്വൻസിയിൽ ഇന്റെൻസിറ്റി I ആയിട്ടുള്ള ലൈറ്റ് പതിപ്പിക്കുന്നു ഗ്യാസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ ഇന്റെൻസിറ്റിയിൽ കടന്നുപോകുന്ന ദൂരത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസം ആയിരിക്കും ഉയർന്ന എനർജി ലെവലിൽ ഉള്ള ആറ്റത്തിന്റെ നമ്പർ ഡെൻസിറ്റി n2 താഴ്ന്ന എനർജി ലെവലിലുള്ള നമ്പർ ഡെൻസിറ്റി n1 നേക്കാൾ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും ഗ്യാസിൽ കൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ ഇന്റെൻസിറ്റി കൂടുന്നു അതായത് ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു അടുത്തതായി നമ്മൾ ക്രോസ്സ് സെക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം നമ്മൾ നേരത്തെ തന്നെ കാണാനുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം

സാധാരണയായി വൈറ്റ് ലൈറ്റ് അഥവാ ധവള പ്രകാശം പതിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ബാൻഡിലുള്ള ലൈറ്റ് എടുത്താൽ 𝚫𝞶 എന്നത് ഏകദേശം 𝞶 തന്നെ ആയിരിക്കും അതുകൊണ്ടു തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് ലഭിക്കുന്നത് ഏകദേശം എത്രയാണെന്ന് നോക്കാം ഇവിടെ B 1022 ഓർഡറിലാണ് h 10 34 ഓർഡറിലാണ് c 108 ഓർഡറിലാണ് ഇതെല്ലം ചേർന്ന് അഥവാ 10 14cm 2 എന്നാൽ സാധാരണയായി നമ്മൾ കാണുന്നത് ആറ്റത്തിന്റെ വരുന്നത് 10 18 10 20 cm 2 റേഞ്ചിൽ ആയിരിക്കുമെന്നാണ് ഇവിടെ നമ്മൾ ഒരു ഏകദേശ കണക്കുകൂട്ടലാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ d I dz നിങ്ങൾക്ക് കിട്ടുന്നത് അതിനർത്ഥം വളരെ കൂടുതലായാൽ മാത്രമേ ഇന്റെൻസിറ്റിയിൽ എന്തെങ്കിലും പ്രകടമായ വ്യത്യാസം അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് അടുത്തതായി ഇതെങ്ങനെയാണ് ലേസർ നിർമാണത്തിന് ഉതകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തുന്നത് എന്ന് നോക്കാം ലേസറിൽ എന്താണ് നടക്കുന്നത് ഇവിടെ രണ്ടു മിററുകൾ ഉണ്ടായിരിക്കും അവക്കിടയിൽ പ്രകാശ സ്രോതസ് പ്രകാശം ഉണ്ടാക്കുന്നു ഈ ലൈറ്റ് മിററുകൾക്കിടയിൽ മുന്നോട്ടും പിന്നോട്ടും റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു ഇവിടെ ഇടതുവശത്തുള്ള മിററിന്റെ റിഫ്ലക്റ്റിവിറ്റി R1 എന്നിരിക്കട്ടെ വലതുവശത്തുള്ള മിററിന്റെ റിഫ്ലക്റ്റിവിറ്റി R2 എന്നിരിക്കട്ടെ അപ്പോൾ I ഇന്റെൻസിറ്റിയുള്ള ലൈറ്റ് വലതുവശത്തുള്ള മിററിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് R2 I ആയി ഇടതുവശത്തെ മിററിൽ വീഴുന്നു അവിടെനിന്നും റിഫ്ലക്ട് ചെയ്തു വരുമ്പോൾ ഇന്റെൻസിറ്റി R1 R2 I ആയി മാറുന്നു ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യപ്പെടണമെങ്കിൽ ✕ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 1 എങ്കിലും ആകണം ഇതാണ് ക്രിറ്റിക്കൽ കണ്ടീഷൻ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ R1R2 വിനേക്കാൾ കൂടുതൽ ആയിരിക്കണം ഇത് എത്രയായിരിക്കണമെന്നു പരിശോധിക്കാം നമുക്കറിയാം ഗ്യാസ് മീഡിയത്തിൽ കൂടെ z ദൂരം സഞ്ചരിച്ചപ്പോൾ ലൈറ്റിന് ഉണ്ടായ ഇന്റെൻസിറ്റി വ്യതിയാനം ആണെന്ന് ഇതിൽ നിന്നും രണ്ടു മിററുകൾക്കിടയിലുള്ള ക്യാവിറ്റിയുടെ നീളം l എടുത്താൽ ഇടതു വശത്തുള്ള മിററിൽ നിന്നും വലത്തോട്ട് പോയി വലതുവശത്തെ മിററിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഇടതുവശത്തെ മിററിലെത്തുന്നതിനു മുൻപ് ലൈറ്റ് 2l ദൂരം നീങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇടത് വശത്തുള്ള മിററിൽ ലൈറ്റിന്റെ ഇന്റെൻസിറ്റി ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആയിരിക്കും ഇതിനെ R1R2I കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന en2 n1σ2lR1R2I വിന്റെ വാല്യു I എങ്കിലും ഉണ്ടായിരിക്കണം അതായത് അതായത് ഇതിന്റെ വാല്യൂ ഏറ്റവും കുറഞ്ഞത് I എങ്കിലും ഉണ്ടാവണം എന്നാൽ മാത്രമേ ലൈറ്റ് ചുരുങ്ങിയ പക്ഷം അതെ ഇന്റെൻസിറ്റിയിൽ എങ്കിലും നിലനിൽക്കുകയുള്ളൂ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യപ്പെടണമെങ്കിൽ ഇതിന്റെ വാല്യൂ I യെക്കാൾ കൂടുതലാവണം ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അതായത് R1 R2 1 ആയിരിക്കും അതുകൊണ്ടുതന്നെ അതായത് ലേസർ ഉണ്ടാവുക എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ കുറഞ്ഞപക്ഷം ln √ 𝜎l നു തുല്യമെങ്കിലുമാകണം ഈ കണ്ടീഷനെ ക്രിട്ടിക്കൽ പോപുലേഷൻ ഇൻവെർഷൻ എന്ന് പറയുന്നു അതായത് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ ഇവയൊക്കെയാണ് ഉയർന്ന എനർജി ലെവലിൽ താഴ്ന്ന എനർജി ലെവെലിനെക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലേസർ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ലേസർ ആക്ഷൻ തുടർന്ന് നടക്കാനായി n 1 ഉം n 2 ഉം തമ്മിൽ ഒരു മിനിമം വ്യത്യാസമെങ്കിലും ഉണ്ടായിരിക്കണം ഇത് മിററിന്റെ റിഫ്ലക്റ്റിവിറ്റിയെയും മിറർ തമ്മിലുള്ള അകലത്തെയും അതായത് ആറ്റങ്ങൾ സ്ഥിതിചെയ്യുന്ന ക്യാവിറ്റിയുടെ നീളത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഈ ക്യാവിറ്റി ആണ് ആംപ്ലിഫൈയർ ആയി വർത്തിക്കുന്നത് ഇപ്രകാരം 0 ആകാനായി എന്താണ് ചെയ്യേണ്ടത് ഇതിനെകുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം